ഒരു ഉറവിടത്തിൽ നിന്ന് ടാർഗെറ്റ് വെർട്ടെക്സിലേക്ക് ഒരു പാത ഉണ്ടോയെന്ന് പര്യവേക്ഷണം ചെയ്യുന്നതിന് ബ്രെത്ത് ഫസ്റ്റ് ഡെപ്ത് ഫസ്റ്റ് തിരയൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ കണ്ടു എന്നാൽ ഈ രണ്ട് നടപടിക്രമങ്ങൾ ഉപയോഗിച്ച് ഒരാൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനാൽ ഒരു ഗ്രാഫ് എന്നത് ഒരു കൂട്ടം വെർട്ടീസുകളും വെർട്ടീസുകൾക്കിടയിൽ കണക്ഷനുകളുള്ള ഒരു കൂട്ടം അരികുകളുമാണെന്ന് ഓർമ്മിക്കുക ഇവ ഒരുപക്ഷേ സംവിധാനം അല്ലെങ്കിൽ വഴിതിരിച്ചുവിടില്ല ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ തിരയൽ നടത്തുമ്പോൾ ഒരു ശീർഷകത്തിൽ ആരംഭിക്കുന്ന ലെവൽ പര്യവേക്ഷണങ്ങളാൽ ഞങ്ങൾ ഒരു ലെവൽ ചെയ്യുന്നു ഓരോ തവണയും ഞങ്ങൾ ഒരു പുതിയ വെർടെക്സിലേക്ക് പോകുമ്പോൾ ആഴത്തിലുള്ള ആദ്യ തിരയൽ നടത്തുമ്പോൾ ഞങ്ങൾ പര്യവേക്ഷണം ആ ശീർഷകത്തിലേക്ക് മാറുന്നു കൂടാതെ ഞങ്ങൾ ഒരു അന്തിമഘട്ടത്തിലെത്തുമ്പോഴെല്ലാം ഞങ്ങൾ ബാക്കപ്പ് ചെയ്യുന്നു ആഴത്തിലുള്ള ആദ്യ തിരയലുകളുടെ സവിശേഷതകളിലൊന്ന് ഈ ആവർത്തന പ്രക്രിയയിൽ എക്സിറ്റ് വെർട്ടീസുകളിൽ ഞങ്ങൾ നൽകുന്ന ക്രമത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കാൻ കഴിയും അതിനാൽ അണ്ടർലൈൻ ഗ്രാഫിന്റെ ഈ ഘടനയെക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് എങ്ങനെ BFS DFS എന്നിവ ഉപയോഗിക്കാമെന്ന് നോക്കാം അതിനാൽ വഴിതിരിച്ചുവിടാത്ത ഗ്രാഫിന്റെ ഒരു അടിസ്ഥാന സ്വത്ത് വിച്ഛേദിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് ഓരോ ശീർഷകത്തിൽ നിന്നും മറ്റെല്ലാ ശീർഷകങ്ങളിലേക്കും പോകാമോ എന്നതാണ് അതിനാൽ ഇടതുവശത്തുള്ള ഗ്രാഫ് ബന്ധിപ്പിച്ചിരിക്കുന്നതായി ഈ രണ്ട് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം നിങ്ങൾക്ക് എല്ലാ ശീർഷകങ്ങളിൽ നിന്നും മറ്റെല്ലാ ശീർഷകങ്ങളിലേക്കും പോകാം മറുവശത്ത് വലതുവശത്ത് ചില ലംബങ്ങൾ മറ്റ് ലംബങ്ങളിൽ നിന്ന് എത്തിച്ചേരാനാവില്ല ഉദാഹരണത്തിന് ഒരാൾക്ക് 2 മുതൽ 7 വരെ അല്ലെങ്കിൽ 6 ൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയില്ല ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ട ഒരു വഴിതിരിച്ചുവിടാത്ത ഗ്രാഫ് ഉള്ളപ്പോൾ ബന്ധിപ്പിച്ച ഘടകങ്ങൾ എന്താണെന്ന് കണ്ടെത്താനും ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നു അതിനാൽ അവ ശേഖരിക്കാൻ ഞങ്ങൾ ഗ്രൂപ്പുചെയ്യാൻ ആഗ്രഹിക്കുന്നു പരസ്പരം ഒരു യൂണിറ്റിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന വെർട്ടീസുകൾ ഈ യൂണിറ്റുകളിൽ ഏതാണ് ഉള്ളതെന്നും അത്തരം യൂണിറ്റുകൾ എത്രയുണ്ടെന്നും കണ്ടെത്തുന്നു അതിൽ ലംബങ്ങൾ ഒരേ യൂണിറ്റിൽ ഉൾപ്പെടുന്നു നാൽ ബന്ധിപ്പിച്ച ഘടകങ്ങൾ തിരിച്ചറിയാൻ BFS അല്ലെങ്കിൽ DFS ഉപയോഗിക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യത്തിൽ അതിനാൽ നോഡ് ലേബൽ 1 അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോഡിൽ ആരംഭിക്കുന്ന ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഈ നോഡിൽ നിന്ന് ഞങ്ങൾ BFS അല്ലെങ്കിൽ DFS പ്രവർത്തിപ്പിക്കുന്നു ഈ പ്രക്രിയയിൽ ഞങ്ങൾ സന്ദർശിച്ചതുപോലെ നിരവധി നോഡുകൾ അടയാളപ്പെടുത്തും ഈ ഘട്ടത്തിൽ ആദ്യ നോഡിൽ നിന്ന് ആരംഭിക്കുന്ന BFS അല്ലെങ്കിൽ DFS സന്ദർശിക്കാത്ത ഏതെങ്കിലും വെർട്ടീസുകൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം അവ ബന്ധിപ്പിച്ച സമാന ഘടകത്തിൽ പെടരുത് അതിനാൽ സന്ദർശിച്ച മാർക്ക് കണക്റ്റുചെയ്ത ഘടകത്തിന് തുല്യമാണെന്ന് കാണിക്കുന്നത് എളുപ്പമാണ് അതിനാൽ ആരംഭ നോഡ് അടങ്ങിയിരിക്കുന്ന കണക്റ്റുചെയ്ത ഘടകം അതിനാൽ ഇപ്പോൾ ഞങ്ങൾ തിരികെ പോയി ലിസ്റ്റിലെ ആദ്യത്തെ നോഡിലേക്ക് നോക്കുന്നു അത് സന്ദർശിച്ചതായി അടയാളപ്പെടുത്താത്തതും ആ നോഡിൽ നിന്ന് BFS അല്ലെങ്കിൽ DFS ആരംഭിക്കുന്നതും ആണ് അതിനാൽ അടയാളപ്പെടുത്തിയതും ബന്ധിപ്പിച്ചതുമായ ആദ്യത്തെ നോഡിൽ നിന്ന് എത്തിച്ചേരാവുന്ന വെർട്ടീസുകൾ അടങ്ങിയ ഒരു പുതിയ കണക്റ്റുചെയ്ത ഘടകം ഞങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നോഡുകൾ ഇപ്പോഴും ഉണ്ട് അവ സന്ദർശിക്കാത്തവയാണ് അവയിലൊന്നിൽ നിന്ന് ഞങ്ങൾ പുനരാരംഭിച്ച് മുന്നോട്ട് പോകുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഓരോ ഡിഎഫ്എസിനെയും വ്യത്യസ്ത സംഖ്യകളുമായി ലേബൽ ചെയ്യാൻ കഴിയും അതിനാൽ അവസാനം ഓരോ ശീർഷകവുമായും ബന്ധപ്പെടുത്താൻ കഴിയും അത് ഞങ്ങൾ കണ്ടെത്തിയ ഘടകത്തിന്റെ എണ്ണം അതിനാൽ ഇതിന്റെ ഒരു ഉദാഹരണം നോക്കാം അതിനാൽ ഞങ്ങൾക്ക് ഈ ഗ്രാഫ് ഉണ്ടെന്ന് കരുതുക ഉദാഹരണത്തിന് ഞങ്ങളുടെ ബിഎഫ്എസിൽ ഒരു അധിക വേരിയബിൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഘടകങ്ങൾ എണ്ണാൻ ഡിഎഫ്എസ് കോൾ കോംപ്റ്റ് പോലും അതിനാൽ ഞങ്ങൾ ആദ്യം compt 1 എന്ന് പറഞ്ഞിരിക്കാം ഒരുപക്ഷേ ഞങ്ങൾ ആരംഭിക്കുന്നത് നോഡ് 1 ൽ നിന്നുള്ള DFS അല്ലെങ്കിൽ BFS ആയിരിക്കാം അതിനാൽ ഈ പ്രക്രിയയിൽ ഞങ്ങൾ 1 2 5 9 10 എന്നിവ സന്ദർശിക്കും ഇവയ്ക്കെല്ലാം j യുടെ ഘടകം comp ന് തുല്യമാണെന്ന് ഞങ്ങൾ പറയും ഇപ്പോൾ എല്ലാ നോഡുകളും സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കും 12 നോഡുകളിൽ 5 എണ്ണം മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ അതിനാൽ ഞങ്ങൾ 3 സന്ദർശിച്ചിട്ടില്ലാത്ത ഏറ്റവും ചെറിയ നോഡിലേക്ക് പോയി പുനരാരംഭിക്കുക പക്ഷേ പുനരാരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എണ്ണം 2 ലേക്ക് അപ്ഡേറ്റുചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരു ബിഎഫ്എസ് ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഒരു ഡിഎഫ്എസ് പറഞ്ഞു നോഡ് 3 പറഞ്ഞു ഞങ്ങൾക്ക് എത്തിച്ചേരാവുന്നതെല്ലാം സന്ദർശിക്കുക ഇതിൽ പ്രോസസ്സ് ഈ 6 നോഡുകൾ ഘടകം 2 ൽ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയും ഈ സമയത്ത് നോഡ് 6 ഇപ്പോഴും സന്ദർശിച്ചതായി അടയാളപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഒരു മൂന്നാം ഘടകം തിരിച്ചറിയുന്ന 3 ലേക്ക് കോംപ് ഉപയോഗിച്ച് 3 ആം റ B ണ്ട് ബിഎഫ്എസ് അല്ലെങ്കിൽ ഡിഎഫ്എസ് ഞങ്ങൾ പുനരാരംഭിക്കുന്നു ഇപ്പോൾ കൂടുതൽ സന്ദർശിക്കാത്ത നോഡുകളൊന്നുമില്ല അതിനാൽ BFS DFS എന്നിവയുടെ ആവർത്തിച്ചുള്ള പ്രയോഗത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് അവിടെ നിർത്താനും അവിടെ എല്ലാ ഘടകങ്ങളും തിരിച്ചറിയാനും ക്ലസ്റ്റർ ചെയ്യാനും കഴിയും അതിനാൽ എല്ലാ നോഡുകളും ഒരേ ഘടകത്തിൽ അല്ലെങ്കിൽ ഒരേ ഘടക നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രാഫിന്റെ മറ്റ് രസകരമായ ഘടനാപരമായ സ്വത്ത് അതിന് ചക്രങ്ങളുണ്ടോ ഇല്ലയോ എന്നതാണ് അതിനാൽ ഒരു ഇടത് പോലുള്ള ഒരു ഗ്രാഫാണ് ഒരു അസൈക്ലിക്ക് ഗ്രാഫ് അതിൽ നിങ്ങൾക്ക് ഒരു നോഡിലും ആരംഭിച്ച് അരികുകളുടെ തുടർച്ച പിന്തുടരാനും നോഡിലേക്കും അവയുടെ വലതുവശത്തേക്കും സൈക്കിളുകളുള്ള ഗ്രാഫ് ഉദാഹരണത്തിന് 5 9 10 ഫോം സൈക്കിളുകൾ ഉണ്ട് മറ്റ് സൈക്കിളുകളും ഉണ്ട് ഉദാഹരണത്തിന് നിരവധി സൈക്കിളുകൾ ഉണ്ട് 3 4 7 8 ന് ഒരു മുഴുവൻ ഫോം ഒരു സൈക്കിൾ ഉണ്ട് കൂടാതെ യൂണിറ്റ് ക്ലിക്ക് 3 ൽ ചെറിയ സൈക്കിളുകളും ഉണ്ട് 4 8 3 7 8 7 8 11 എന്നിവയും ഒരു ചക്രമാണ് അതിനാൽ ബിഎഫ്എസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം സന്ദർശിച്ചതുപോലെ വെർട്ടീസുകൾ അടയാളപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അരികുകളുടെ ട്രാക്ക് സൂക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇടതുവശത്തുള്ളതുപോലുള്ള ഒരു അസൈക്ലിക്ക് ഗ്രാഫ് ആണെങ്കിൽ ഗ്രാഫിലുള്ള ഓരോ നോഡും യഥാർത്ഥത്തിൽ BFS തിരയലിന്റെ ഭാഗമായി ഉപയോഗിക്കുമോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും മറുവശത്ത് നിങ്ങൾ സൈക്കിളുകളുള്ള ഒരു ഗ്രാഫിൽ BFS പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ചില അറ്റങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും കാരണം നിങ്ങൾ ആ അരികുകൾ പര്യവേക്ഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടാർഗെറ്റ് വെർട്ടെക്സ് ഇതിനകം സന്ദർശിച്ചതായി നിങ്ങൾ കണ്ടെത്തും ഉദാഹരണത്തിന് 9 പര്യവേക്ഷണം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ 5 ന്റെ അയൽവാസിയെപ്പോലെ 10 ഇതിനകം സന്ദർശിച്ചതിനാൽ ഞങ്ങൾ 9 10 എഡ്ജ് ഉപയോഗിക്കുന്നില്ല അതുപോലെ ഞങ്ങൾ 4 8 എഡ്ജ് ഉപയോഗിക്കുന്നില്ല കാരണം ഇത് ഇതിനകം ഒരു കൂട്ടം അയൽക്കാരായി സന്ദർശിക്കപ്പെട്ടിട്ടുണ്ട് 3 ന്റെ വീതിയേറിയ ആദ്യ തിരയലിൽ ഓർക്കുക ഞങ്ങൾ 3 ലേക്ക് പോകുന്നത് 1 ഘട്ട അയൽവാസികളാണ് അതിനാൽ ഞങ്ങൾ നേരിട്ട് 4 8 7 എന്നിവ സന്ദർശിക്കില്ല അതിനാൽ 4 ലേക്ക് വരുമ്പോൾ 4 8 എഡ്ജ് ഉപയോഗിക്കേണ്ടതില്ല 7 ലേക്ക് വരുമ്പോൾ 7 8 തുടങ്ങിയവ ഉപയോഗിക്കേണ്ടതില്ല അതിനാൽ ഈ അരികുകൾ അവശേഷിക്കുന്നു ഇപ്പോൾ നമുക്ക് n വെർട്ടീസുകളുള്ള ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ അത് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിന് സൈക്കിളുകൾ ഇല്ലെങ്കിൽ അതിന് കൃത്യമായി n മൈനസ് 1 അരികുകൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫിനെ ട്രീ എന്ന് വിളിക്കുന്നു അതിനാൽ വൃക്ഷങ്ങൾക്ക് നിരവധി നിർവചനങ്ങൾ ഉണ്ട് പക്ഷേ ഒരു വൃക്ഷം അടിസ്ഥാനപരമായി ബന്ധിപ്പിച്ച അസൈക്ലിക്ക് ഗ്രാഫ് ആണ് കണക്റ്റുചെയ്ത മാർഗ്ഗം നിങ്ങൾക്ക് എല്ലായിടത്തുനിന്നും എല്ലായിടത്തും പോകാം അസൈക്ലിക്ക് എന്നാൽ ലൂപ്പുകളൊന്നുമില്ലെന്നും n വെർട്ടീസുകളിൽ കണക്റ്റുചെയ്തിരിക്കുന്ന ഏതെങ്കിലും അസൈക്ലിക്ക് ഗ്രാഫിന് കൃത്യമായി n മൈനസ് 1 അറ്റങ്ങൾ ഉണ്ടാകും അതിനാൽ ഏത് ഗ്രാഫിലും ഞങ്ങൾ BFS പര്യവേക്ഷണം ചെയ്യുകയാണെങ്കിൽ BFS യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അരികുകൾ ഒരു വൃക്ഷമായി മാറും ഇതിനെ BFS ട്രീ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ശേഷിക്കുന്ന അരികുകളെക്കുറിച്ച് എന്തുസംഭവിക്കും ഇവയെ ട്രീ ഇതര അരികുകൾ എന്ന് വിളിക്കും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുന്നത് വൃക്ഷം ഇതര അരികുകൾ ഇതിനകം അവിടെയുള്ള വൃക്ഷത്തിന്റെ അരികുകളുമായി സംയോജിപ്പിച്ച് ഒരു ചക്രം ഉണ്ടാക്കുന്നു എന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഉപയോഗിക്കാത്ത ചില ലംബങ്ങളോ ചില അരികുകളോ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയാൽ ഞങ്ങൾ BFS പ്രവർത്തിപ്പിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ ട്രീ ഇതര അരികുകളുണ്ടെങ്കിൽ ഈ ഗ്രാഫിന് തീർച്ചയായും ഒരു ചക്രം ഉണ്ടാകും അതിനാൽ ഒരു സൈക്കിൾ ഉണ്ടായിരിക്കുക എന്നത് ബിഎഫ്എസ് ചെയ്യുമ്പോൾ ഒരു ട്രീ ഇതര എഡ്ജ് കണ്ടെത്തുന്നതിന് തുല്യമാണ് ട്രീ ഇതര എഡ്ജ് എന്നത് ഒരു എഡ്ജ് മാത്രമാണ് ഞാൻ കോമ ജെ പര്യവേക്ഷണം ചെയ്യാനും ജെ ഇതിനകം മാർക്ക് സന്ദർശിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്താനും വരും അതിനാൽ ഞങ്ങൾ i ലേക്ക് പോകുന്നില്ല BFS ൽ ഞാൻ കോമ j ഉപയോഗിക്കുന്നില്ല അതിനാൽ നമുക്ക് അതേ കാര്യം ചെയ്യാം പക്ഷേ ഡിഎഫ്എസ് പ്രീ പോസ്റ്റ് നമ്പറുകൾ കണക്കുകൂട്ടാം അതിനാൽ ഞങ്ങൾക്ക് ചില പ്രാക്ടീസ് സെറ്റുകൾ ലഭിക്കുന്നു അതിനാൽ ഞങ്ങൾ വെർട്ടെക്സ് 1 ൽ DFS അടുക്കുകയും അത് 0 എന്ന് ക counter ണ്ടർ എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ സ്റ്റെപ്പ് 0 ൽ വെർട്ടെക്സ് 0 വെർട്ടെക്സ് 1 എന്നിവ നൽകുന്നു അതിനാൽ ഇത് വെർട്ടെക്സ് 0 ന്റെ പ്രീ നമ്പറാണ് 1 ൽ നിന്ന് നമ്മൾ പര്യവേക്ഷണം ചെയ്യുന്ന ആദ്യത്തെ അയൽക്കാരൻ 2 ആണ് അതിനാൽ ഇതിന് പ്രീ നമ്പർ 1 ഉണ്ട് എന്നാൽ 2 ന് കൂടുതൽ വിജയങ്ങളില്ല അതിനാൽ ഞങ്ങൾ 2 ൽ നിന്ന് പുറത്തുകടക്കുന്നു അതിനാൽ ഇതിന് പോസ്റ്റ് നമ്പർ 2 ഉണ്ട് അതിനാൽ ഞങ്ങൾ പ്രവേശിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ക counter ണ്ടർ വർദ്ധിപ്പിക്കും പുറത്തുകടക്കുമ്പോഴെല്ലാം ഞങ്ങൾ ക ണ്ടർ വർദ്ധിപ്പിക്കും അതിനാൽ ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഒരു ഇൻക്രിമെന്റ് എക്സിറ്റ് വെർട്ടെക്സ് 2 ൽ പ്രവേശിച്ച് 1 ലേക്ക് മടങ്ങുക അടുത്ത അയൽവാസിയാണെന്ന് പര്യവേക്ഷണം ചെയ്യുക അത് സമയം 3 ൽ ഞങ്ങൾ 5 ആണ് തുടർന്ന് ഞങ്ങൾ വെർട്ടെക്സ് 9 സമയം 4 ലേക്ക് നീക്കുന്നു തുടർന്ന് 9 ൽ നിന്ന് 10 ലേക്ക് 5 ലേക്ക് പോകുന്നു ഇപ്പോൾ 10 പേർക്ക് പര്യവേക്ഷണം ചെയ്യാൻ കൂടുതൽ അയൽക്കാർ ഇല്ല അതിനാൽ ഞങ്ങൾ 6 ന് 10 ൽ നിന്ന് പുറത്തുകടക്കുന്നു 9 ന് കൂടുതൽ അയൽക്കാർ ഇല്ല അതിനാൽ 9 ന് പുറത്തുകടക്കുക 7 ന് 5 ലേക്ക് മടങ്ങുക തുടർന്ന് 5 ന് കൂടുതൽ അയൽക്കാർ ഇല്ല അതിനാൽ ഞങ്ങൾ 5 ൽ നിന്ന് പുറത്തുകടക്കുന്നു ഒടുവിൽ ഞങ്ങൾ 1 ൽ നിന്ന് പുറത്തുകടക്കുന്നു അതിനാൽ 9 ആം ഘട്ടത്തിൽ ഞങ്ങൾ പ്രോസസ്സിംഗ് 1 പൂർത്തിയാക്കി ഇപ്പോൾ 3 എന്ന് അടയാളപ്പെടുത്താത്ത ആദ്യത്തെ ശീർഷകത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നു അവിടെ നിന്ന് ഞങ്ങൾ പുതിയ DFS ൽ പുനരാരംഭിക്കുന്നു അതിനാൽ ഞങ്ങൾ 3 സമയം 3 ൽ പ്രവേശിക്കുന്നു 3 ൽ നിന്ന് 11 ലേക്ക് 4 ലേക്ക് നീങ്ങും ഇപ്പോൾ 4 സമയം 12 ന് 8 ലേക്ക് നീങ്ങുന്നു 8 ൽ നിന്ന് ഞങ്ങൾ ഇതിലേക്ക് നീങ്ങുന്നു സന്ദർശിക്കാത്ത ഏറ്റവും ചെറിയ അയൽക്കാർ ഇത് 7 സമയം 13 ആണ് 7 ൽ നിന്ന് 11 സമയത്തേക്ക് 14 ഇപ്പോൾ 11 ന് 7 ഉം 8 ഉം പര്യവേക്ഷണം ചെയ്യാൻ പുതിയ അയൽവാസികളില്ല അതിനാൽ ഞങ്ങൾ 11 ൽ നിന്ന് പുറത്തുകടക്കുന്നു 7 അയൽക്കാർ പര്യവേക്ഷണം ചെയ്യുന്നില്ല അതിനാൽ ഞങ്ങൾ 8 ൽ നിന്ന് പുറത്തുകടക്കുക 12 പര്യവേക്ഷണം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ 17 ആം ഘട്ടത്തിൽ 12 പ്രവേശിക്കുന്നു തുടർന്ന് ഞങ്ങൾ 12 ൽ നിന്ന് പുറത്തുകടക്കുന്നു ഇപ്പോൾ 8 പൂർത്തിയായി അതിനാൽ ഞങ്ങൾ 8 ൽ നിന്ന് പുറത്തുകടക്കുന്നു ഇപ്പോൾ ഞങ്ങൾ 4 4 ലേക്ക് മടങ്ങുന്നു വ്യക്തമായും മറ്റ് ലംബങ്ങളൊന്നുമില്ല അതിനാൽ ഞങ്ങൾ 3 ലേക്ക് മടങ്ങിവരുന്നു ഒടുവിൽ 3 ന് 21 ൽ നിന്ന് പുറത്തുകടക്കുന്നു ഈ 0 6 ന് ഇപ്പോഴും അടയാളപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഞങ്ങൾ 6 ൽ നിന്ന് പുതിയ DFS ആരംഭിക്കുന്നു അതിനാൽ 6 ന് 22 ന് 6 ന് പ്രവേശിക്കുമ്പോൾ അയൽവാസികളില്ല അതിനാൽ ഞങ്ങൾ 23 ന് പുറത്തുകടക്കുന്നു അതിനാൽ BFS പോലുള്ള മരങ്ങളുടെ ശേഖരം സൃഷ്ടിക്കുന്നു അതിനാൽ വിച്ഛേദിച്ച ഗ്രാഫിൽ ഞങ്ങൾ DFS ചെയ്യുമ്പോൾ ബന്ധിപ്പിച്ച ഓരോ ഘടകങ്ങളും ട്രീ ജനറേറ്റുചെയ്യും ഇപ്പോൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യാത്ത അരികുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവ വീണ്ടും മരത്തിന് പുറത്തുള്ള അരികുകൾ ബീറ്റ് ചെയ്യും അതിനാൽ നമുക്ക് അവയെ മറ്റൊരു നിറത്തിൽ വരയ്ക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യാത്ത 5 നും 10 നും ഇടയിലുള്ള അരികുണ്ട് കാരണം 9 ൽ നിന്ന് നേരിട്ട് 10 ആണോ അല്ലയോ എന്ന് 5 പര്യവേക്ഷണം ചെയ്തു അതിനാൽ വീണ്ടും ഒരു ബിഎഫ്എസ് പോലെ ട്രീ ഇതര അരികുകളുണ്ടെങ്കിൽ ഞങ്ങൾ ഡിഎഫ്എസ് പൂർത്തിയാക്കിയാൽ ഞങ്ങൾക്ക് ഒരു സൈക്കിൾ ഉണ്ട് അതിനാൽ വഴിതിരിച്ചുവിടാത്ത ഗ്രാഫിലെ ബിഎഫ്എസിനും ഡിഎഫ്എസിനും ഒരു ട്രീ ഇതര സാന്നിധ്യത്തിലൂടെ ഒരു ചക്രം വെളിപ്പെടുത്താനാകും അതിനാൽ സംവിധാനം ചെയ്ത ഗ്രാഫുകളുമായുള്ള ഈ സാഹചര്യം കുറച്ചുകൂടി പൂരകമാണ് അതിനാൽ ഞങ്ങൾ സംവിധാനം ചെയ്ത ഗ്രാഫിൽ സൈക്കിളായിരിക്കുമ്പോൾ എന്തുസംഭവിക്കുമെന്ന് നോക്കാം അതിനാൽ ഒരു സംവിധാനം ചെയ്ത ഗ്രാഫിൽ ഞങ്ങൾ എഡ്ജ് അമ്പടയാളങ്ങളും അരികുകളിലുള്ള അമ്പുകളും പിന്തുടരേണ്ടതുണ്ട് ഉദാഹരണത്തിന് 1 3 4 1 ഇത് ചക്രം ആണ് കാരണം നമുക്ക് ദിശ മാറ്റാതെ ചുറ്റിക്കറങ്ങാം ഇവിടെ 1 6 2 1 എന്നത് ഒരു ചക്രമല്ല കാരണം തിരിച്ചുപോകാനുള്ള വഴി 2 ൽ നിന്ന് ദിശകൾ മാറേണ്ടതുണ്ട് എനിക്ക് പോകാൻ കഴിയാത്ത 1 ലേക്ക് അതിനാൽ നമുക്ക് ഒരു ഡിഎഫ്എസ് ചെയ്ത് ഈ ഗ്രാഫിലെ പിന്തുണ സൈക്കിളുകൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം അതിനാൽ ഞങ്ങൾ പതിവുപോലെ ശീർഷകം 1 ൽ ആരംഭിക്കുന്നു അതിനാൽ 1 ന് സ number ജന്യ നമ്പർ 0 ഉണ്ട് അത് ഏറ്റവും ചെറിയ അയൽക്കാരൻ 2 ആണ് ഏറ്റവും ചെറിയ അയൽക്കാരിൽ 2 ഉം 5 ഉം ഏറ്റവും ചെറിയ അയൽക്കാരൻ 5 ഉം 6 ഉം ഏറ്റവും ചെറിയ അയൽക്കാരനും 6 ന്റെ 7 ആണ് ഇപ്പോൾ 7 ൽ നിന്ന് ഔട്ട് ഗോയിങ് അരികുകളില്ല അതിനാൽ 6 ൽ നിന്ന് 6 ലേക്ക് തിരികെ ട്രാക്കുചെയ്യാം നമുക്ക് മുമ്പേ കണ്ട 2 നോഡിലേക്ക് പോകാം അതിനാൽ ഞങ്ങൾ 6 വിടുന്നു ഇപ്പോൾ ഞങ്ങൾ 5 ലേക്ക് വരുന്നു 5 ഇപ്പോഴും going ട്ട്ഗോയിംഗ് എഡ്ജിൽ 8 ആണ് അതിനാൽ ഞങ്ങൾ വരുന്നു a 8 ഇപ്പോൾ 8 ൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനാൽ ഞങ്ങൾ 8 ൽ നിന്ന് 5 ലേക്ക് മടങ്ങുന്നു ഇപ്പോൾ 5 ന് പര്യവേക്ഷണം ചെയ്യാൻ ഒന്നും ശേഷിക്കുന്നില്ല അതിനാൽ ഞങ്ങൾ 5 ഉപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ 2 ഉപേക്ഷിക്കുന്നു ഞങ്ങൾ 1 ലേക്ക് മടങ്ങുന്നു ഇപ്പോൾ 1 ന് ഞങ്ങൾ ഈ ഇടത് പാത പര്യവേക്ഷണം ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയല്ല മറ്റ് കുറവുകൾ 3 ലേക്ക് പോകുകയും ചെയ്യും അതിനാൽ ഞങ്ങൾ 3 3 പര്യവേക്ഷണം ചെയ്യുന്നു 4 പര്യവേക്ഷണം ചെയ്യും എന്നാൽ 4 ന് 8 അല്ലെങ്കിൽ 1 ലേക്ക് പോകാൻ കഴിയില്ല കാരണം 1 ഇതിനകം കണ്ടതും ഉറവിടം 8 ഉം ആയതിനാൽ 4 പുറത്തുകടക്കും അതിനാൽ 3 പുറത്തുകടക്കും തുടർന്ന് 1 പുറത്തുകടക്കും അതിനാൽ ഇത് ഒരൊറ്റ കണക്റ്റുചെയ്ത ഗ്രാഫ് ആയി മാറുന്നു പക്ഷേ ഇതിന് ചക്രങ്ങളുണ്ട് അതിനാൽ ഇപ്പോൾ ഈ അരികുകളിലേക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ വരച്ച അരികുകൾ മുമ്പത്തെപ്പോലെ വൃക്ഷത്തിന്റെ അരികുകളാണ് ഇപ്പോൾ ഗ്രാഫിന്റെ ഭാഗമല്ലാത്ത അരികുകൾ നോക്കിയാൽ അവ 3 ഗ്രൂപ്പുകളായിരിക്കും അതിനാൽ വൃക്ഷത്തിന്റെ ഭാഗമല്ലാത്ത ആദ്യത്തെ തരം എഡ്ജ് ആണ് ഞങ്ങൾ ഫോർവേഡ് എഡ്ജ് എന്ന് വിളിക്കുന്നത് അതിനാൽ ഫോർവേഡ് എഡ്ജ് എന്നത് ഒരു എഡ്ജ് ആണ് അത് ട്രീയിൽ താഴെയുള്ള ഒരു നോഡിലേക്ക് ഒരു നോഡ് രൂപപ്പെടുത്തുന്നു അതിനാൽ ഞങ്ങൾക്ക് 1 മുതൽ 6 വരെ ഒരു നോഡ് ഉണ്ട് അതിനാൽ ഈ എഡ്ജ് ഒരു ട്രീ എഡ്ജ് ഒരു ട്രീ എഡ്ജ് അല്ല പക്ഷേ ഇത് ഒരു ഫോർവേഡ് എഡ്ജ് ആണ് കാരണം 1 ഭാഗത്ത് 6 എണ്ണം ഉണ്ടായിരുന്നു അതുപോലെ 5 മുതൽ 7 വരെയുള്ള നോഡ് കാരണം ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഗ്രാഫ് 5 6 7 ആണെന്ന് പര്യവേക്ഷണം ചെയ്യുന്നു അതിനാൽ 5 മുതൽ 7 വരെ ട്രീ അല്ല അതിനാൽ ഇവ ഫോർവേഡ് അരികുകളാണ് മരത്തിൽ ഇല്ലാത്ത ഗ്രാഫിൽ മറ്റ് വിഭാഗത്തിലുള്ള അരികുകൾക്ക് പിന്നോക്ക അറ്റങ്ങളുണ്ട് അവ വൃക്ഷത്തിന്റെ മുകളിലേക്ക് പോകുന്നു അതിനാൽ 6 മുതൽ 2 വരെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്ത എഡ്ജ് ഉണ്ട് കാരണം രണ്ടെണ്ണം ഇതിനകം പര്യവേക്ഷണം ചെയ്തു അതുപോലെ തന്നെ 4 മുതൽ 1 വരെ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യാത്ത എഡ്ജ് ഉണ്ട് കാരണം അത് ഇതിനകം തന്നെ ഉണ്ടായിരുന്നു ട്രീയിൽ ഇല്ലാത്ത മറ്റൊരു വിഭാഗത്തിലുള്ള അരികുകളുണ്ട് പക്ഷേ ഗ്രാഫിൽ ഇവ 6 മുതൽ 2 വരെയുള്ള അരികുകളാണ് അതിനാൽ ഇത് പിന്നീടുള്ള വെർട്ടെക്സിൽ നിന്ന് 4 പിന്നിൽ നിന്ന് മുമ്പത്തെ വെർട്ടെക്സ് കോളിലേക്കുള്ള ഒരു അരികാണ് 1 ലേക്ക് അതിനാൽ ഇവയെ പിന്നിലെ അരികുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഡിഎഫ്എസ് ട്രീയിൽ താഴത്തെ ശീർഷകത്തിൽ നിന്ന് ഉയർന്ന ശീർഷകത്തിലേക്ക് പോകുന്ന ഗ്രാഫിലെ ബാക്ക് എഡ്ജ് അവസാനമായി ചില അരികുകളുണ്ട് അവ പിന്നോട്ട് പോകുന്നില്ല മറിച്ച് വശങ്ങളിലേക്കാണ് അതിനാൽ ഇവ 8 മുതൽ 7 വരെയും 4 മുതൽ 8 വരെയുമുള്ള അരികുകളാണ് അതിനാൽ ഈ ക്രോസ് അതിനാൽ 4 8 ന് താഴെയോ 8 ന് 4 ന് താഴെയോ അല്ല 7 8 ന് താഴെയല്ല കാരണം 5 ന് താഴെയും മറ്റും അതിനാൽ ഇവയെ ഞങ്ങൾ ക്രോസ് അരികുകൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഒരു ക്രോസ് എഡ്ജ് വലത്ത് നിന്ന് ഇടത്തേക്ക് മാത്രമേ പോകൂ എന്ന് വാദിക്കാൻ എളുപ്പമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഉയർന്ന സംഖ്യയിൽ നിന്ന് താഴ്ന്ന സംഖ്യയിലേക്ക് മാത്രമേ പോകൂ കാരണം ഉദാഹരണത്തിന് ഇതുപോലുള്ള ഒരു അഗ്രം വരയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് അർത്ഥമാക്കും പക്ഷേ ഒരു എഡ്ജ് 2 മുതൽ 4 വരെ അതിനാൽ ഭാരം എന്നതിനേക്കാൾ നാലാമത്തെ റൂട്ട് ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും അതിനാൽ കുറഞ്ഞ സംഖ്യകളിൽ നിന്ന് ഉയർന്ന സംഖ്യയിലേക്ക് പോകുന്ന പുല്ല് അരികുകൾ ഞങ്ങൾക്ക് ഉണ്ടാകരുത് അത് ഉയർന്ന സംഖ്യകളിൽ നിന്ന് താഴ്ന്ന സംഖ്യകളിലേക്ക് പോകണം അതിനാൽ ഇപ്പോൾ നമുക്ക് ഒന്നല്ല 3 തരം ട്രീ ഇതര അരികുകളുണ്ട് 3 അരികുകളും വൃക്ഷേതര അരികുകളും തമ്മിൽ വ്യക്തമായ വ്യത്യാസം ഉള്ളപ്പോൾ സംവിധാനം ചെയ്ത കേസിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമുക്ക് 3 തരം ട്രീ ഇതര അരികുകളുണ്ട് ഇപ്പോൾ ഇവയിലൊന്ന് സൈക്കിളുകളുമായി യോജിക്കുന്നു അതിനാൽ ഞാൻ ഈ 1 3 എഡ്ജ് നോക്കിയാൽ ഈ 1 6 എഡ്ജ് അതിനാൽ ഈ 1 6 എഡ്ജ് യഥാർത്ഥത്തിൽ ഒരു ചക്രം സൃഷ്ടിക്കുന്നില്ല കാരണം ഇത് ഒരു സൈക്കിൾ അല്ലെന്ന് ഞങ്ങൾ ഇതിനകം കണ്ടു അതിനാൽ ഇത് ചക്രം പൂർത്തിയാക്കുന്നതിന് ഒരു ഡയറക്ട് സൈക്കിൾ കണ്ടെത്തിയ സെറ്റ് ഉൾപ്പെടെയുള്ള ഒരു പാത ഉണ്ടെന്നുള്ളതായിരിക്കണം ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരേയൊരു സാഹചര്യം ബാക്ക് എഡ്ജ് ആണെന്ന് കാണാൻ എളുപ്പമാണ് കാരണം ഒരു ബാക്ക് എഡ്ജ് ഉണ്ട് 2 മുതൽ 6 വരെ ഒരു പാത വരുന്നുണ്ടെന്ന് നമുക്കറിയാം തുടർന്ന് അവയുടെ പിൻവശത്തെ പിൻഭാഗത്ത് ഇത് രൂപം കൊള്ളുന്നു ഒരു സംവിധാനം അതുപോലെ ഇനിപ്പറയുന്ന ബാക്ക് എഡ്ജിൽ 1 മുതൽ 4 വരെ ഒരു പാത ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം മറുവശത്ത് മറ്റ് തരത്തിലുള്ള അരികുകൾ നോക്കിയാൽ അതിനർത്ഥം അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഈ പാതയുണ്ട് കാരണം ഇത് ഇവിടെയുള്ള മറ്റ് പാതയ്ക്ക് സമാന്തരമാണ് അതിനാൽ ഇവ രണ്ടും ഒന്നിച്ച് 6 മുതൽ 6 വരെ പോകുന്നു എന്നാൽ ഒരു മറയ്ക്കൽ ഇല്ല അതേ രീതിയിൽ നമുക്ക് ഇതുപോലൊരു ക്രോസ് എഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പാത വരുന്നു ചില പാത പോകുന്നു അവിടെ നിന്ന് എന്നാൽ ഈ രണ്ട് വ്യത്യസ്ത വഴികൾ 5 ൽ നിന്ന് 7 ൽ എത്തുമ്പോൾ അവ ഒരു ചക്രത്തെ ആശ്രയിക്കുന്നില്ല അതിനാൽ ചെറിയ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നിലെ അരികുകൾ മാത്രമേ സൈക്കിളുകൾ സൃഷ്ടിക്കുന്നുള്ളൂ ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഔപചാരികമായി തെളിയിക്കില്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന ഒന്നാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ചെയ്ത രീതിയിലാണ് ഇത് വാദിക്കുന്നത് എന്നാൽ ഒരു ഡയറക്ട് ഗ്രാഫിന് ഒരു സൈക്കിൾ ഉണ്ട് എന്നാൽ ഡിഎഫ്എസ് മാത്രമേ ബാക്ക് എഡ്ജിനെ മറികടക്കുകയുള്ളൂ ഇപ്പോൾ ഇത് ഗ്രാഫിൽ ഉള്ള അരികുകളുടെ തരം ഉപയോഗിച്ച് തരംതിരിക്കാൻ സഹായിക്കുന്നതിന് ഈ പ്രീ പോസ്റ്റ് നമ്പറിംഗ് വളരെ ഉപയോഗപ്രദമാണെന്ന് കണക്കാക്കുന്നു അതിനാൽ ട്രീ ഫോർവേർഡ് അരികുകൾക്കായി അതിനാൽ നിങ്ങൾ ഈ നമ്പറിംഗിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇവ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇത് 0 മുതൽ 15 വരെ 0 മുതൽ 15 വരെ സജ്ജമാക്കുക 11 മുതൽ 14 വരെ ഘട്ടം 2 മുതൽ 9 വരെ 3 പര്യവേക്ഷണം ചെയ്യുന്നുവെങ്കിൽ ഞാൻ 5 ഉം മറ്റും പര്യവേക്ഷണം ചെയ്യും അതിനാൽ ഞാൻ പ്രീ പോസ്റ്റ് നമ്പർ എന്നിവ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രീ നമ്പറിൽ പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങി പോസ്റ്റിൽ പര്യവേക്ഷണം പൂർത്തിയാക്കി ചുവടെയുള്ള എല്ലാം അതിനിടയിലാണ് സംഭവിക്കുന്നത് അതിനാൽ ഒരു ഫോർവേഡ് എഡ്ജിനായി ഞങ്ങൾ ആന്തരികത്തെക്കുറിച്ച് ചുവടെയുള്ള ഇടവേളയേക്കാൾ വലുതായിരിക്കും കാരണം ഈ കാലയളവിൽ ഞാൻ താഴേയ്ക്ക് പോയി അത് അവസാനിക്കുന്നതിനുമുമ്പ് ഞാൻ തിരിച്ചെത്തി അതിനാൽ ഫോർവേഡ് എഡ്ജ് 0 15 മുതൽ 3 കോമ 6 വരെ ചേർക്കുന്നതിന് അതിനാൽ ഞങ്ങൾ 3 6 എന്നത് 0 നുള്ളിലാണ് 15 ഇതും വൃക്ഷത്തിന്റെ അരികുകളിൽ ഇത് ശരിയാണ് കാരണം മരത്തിൽ എഡ്ജും ഞാൻ നൽകിയ ഫോർവേഡുകളിലേക്ക് പോകുന്നു ഇത് നൽകിയതിന് ശേഷം ലോവർ നോഡ് അതിനാൽ ഇത് പിന്നീടുള്ള ആരംഭ പോയിന്റാണ് അത് വ്യക്തമായി അവസാനിക്കുന്ന പോയിന്റാണ് അതിനാൽ ട്രീ അരികുകൾക്കും ഫോർവേഡ് അരികുകൾക്കും ഞാൻ യു മുതൽ വി വരെ പോകുന്നുവെങ്കിൽ സ്റ്റാർട്ട് നോഡു യുമായുള്ള ഇടവേളയിൽ മറ്റൊന്ന് അടങ്ങിയിരിക്കും പക്ഷേ ഇത് ഇതിനുള്ളിൽ ഇരിക്കും പ്രീ വി പോസ്റ്റ് വി പ്രീ യു പോസ്റ്റ് യു ഉള്ളിൽ ഇരിക്കും അതിനാൽ എനിക്ക് ഈ ചിത്രം ഉണ്ടാകും അതിനാൽ ഇത് നിങ്ങൾക്കുള്ള ആന്തരിക പ്രീ ആയിരിക്കും ഇത് ഇടവേള പ്രീ ആണ് ഒരു ചെറിയ കോമ ചെറിയ ഇടവേളയിലും വലിയ ഇടവേളയിലേക്ക് പോകുമ്പോഴും പിന്നോക്ക അരികുകൾക്ക് വിപരീതമാണ് അതിനാൽ ചെറിയ ഇന്റഗ്രൽ എഡ്ജ് വിത്ത് പോയിന്റിൽ ആരംഭിക്കും തുടർന്ന് വലിയ ഇന്റഗ്രൽ അവസാന പോയിന്റായിരിക്കും അതിനാൽ ഞാൻ എന്റെ ഡിഎഫ്എസ് ട്രീയിലെ ഒരു അരികിലേക്ക് നോക്കുകയും ട്രീ പോസ്റ്റ് നമ്പറുകൾ എന്നിവ അവസാന പോയിന്റുമായി ബന്ധപ്പെടുത്തുകയും ചെയ്താൽ എനിക്ക് ഫോർവേഡ് എഡ്ജ് ബാക്ക്വേർഡ് എഡ്ജ് എന്നിവയുടെ വാക്കുകൾ നിർണ്ണയിക്കാനാകും ഒടുവിൽ ക്രോസ് എഡ്ജുകളിൽ ഇത് മാറും ഇടവേളകൾ വിച്ഛേദിക്കപ്പെടുന്നു അതിനാൽ ഞങ്ങൾ എത്തുന്നതിനുമുമ്പ് 4 വെർട്ടെക്സ് 7 പ്രോസസ് ചെയ്യുന്നത് പൂർത്തിയാക്കിയതായി ഇവിടെ കാണാം 8 അതിനാൽ 7 8 4 ഇടവേളകളിൽ ഒരു വിഭജനവുമില്ല അതുപോലെ തന്നെ ഞങ്ങൾ 4 ലേക്ക് പോകുന്നതിനുമുമ്പ് 8 പ്രോസസ്സിംഗ് പൂർത്തിയാക്കി അതുകൊണ്ടാണ് ഇത് ഒരു ക്രോസ് എഡ്ജ് അവ മരത്തിന്റെ വിവിധ ശാഖകളിലാണ് അതിനാൽ 7 8 12 13 എന്നീ കവലകളൊന്നുമില്ല അതിനാൽ DFS ഒരു ബാക്ക് എഡ്ജ് വെളിപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ ഒരു ഡയറക്ട് ഗ്രാഫിന് ഒരു ചക്രം ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല നമുക്ക് അരികുകൾ ഫോർവേഡ് അരികുകളോ പിന്നോക്ക അരികുകളോ ക്രോസ് അരികുകളോ ആണെന്ന് തരംതിരിക്കാം അരികിലെ അവസാന പോയിന്റുകളുടെ പ്രീ പോസ്റ്റ് നമ്പറിംഗ് ഇപ്പോൾ സൈക്കിളുകൾ തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് കാരണം ഞങ്ങൾക്ക് സൈക്കിൾ ഇല്ലാത്തതിനാൽ നമുക്ക് വളരെ നല്ല ഗ്രാഫുകൾ ഉണ്ട് ഡയറക്ട് എന്ന് വിളിക്കുന്ന ഒരു സൈക്ലിക് ഗ്രാഫുകൾ മോഡലിംഗ് ഡിപൻഡൻസികൾക്ക് ഉപയോഗപ്രദമാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു കൂട്ടം കോഴ്സുകൾ ലിസ്റ്റുചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവയ്ക്ക് മുൻവ്യവസ്ഥകൾ ഉണ്ട് പിന്നെ ഇത് മാതൃകയാക്കാനുള്ള സ്വാഭാവിക മാർഗ്ഗം ഡയറക്ട് ഗ്രാഫിൽ അരികുകളുപയോഗിച്ച് മുൻ ആവശ്യകതകളെ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് ബീജഗണിതത്തിൽ നിന്നും ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ കാൽക്കുലസിലേക്ക് സൂചിപ്പിക്കുന്നത് ബീജഗണിതം കാൽക്കുലസിന് ഒരു മുൻവ്യവസ്ഥയാണ് അതിന് ചക്രങ്ങളില്ല കാരണം നമുക്ക് പരസ്പരം ആവശ്യമുള്ള രണ്ട് കോഴ്സുകൾ നടത്താൻ കഴിയില്ല അല്ലാത്തപക്ഷം ഞങ്ങൾ ഇൻപുട്ടുകൾ ഇൻപുട്ടുകൾ എടുക്കുന്നില്ല അതിനാൽ പിന്നീടുള്ള ഒരു പ്രഭാഷണത്തിൽ ഞങ്ങൾ സംവിധാനം ചെയ്ത അസൈക്ലിക് ഗ്രാഫുകളോ ഡിഎജികളോ ഉടൻ നോക്കും സംവിധാനം ചെയ്ത ഗ്രാഫുകളിലെ കണക്റ്റിവിറ്റിയെക്കുറിച്ച് അതിനാൽ സംവിധാനം ചെയ്ത ഗ്രാഫിലെ കണക്റ്റിവിറ്റി ഗ്രാഫുകൾക്കിടയിൽ ഈ അരികുകൾ ഉള്ളത് മാത്രമല്ല ശരിയായ ദിശയിലായിരിക്കുക എന്നതാണ് അതിനാൽ രണ്ട് നോഡുകൾ ശക്തമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു എനിക്ക് ഒരു പാതയിലൂടെ i മുതൽ j ലേക്ക് പോകാൻ കഴിയുമെങ്കിൽ എനിക്ക് j ൽ നിന്ന് i ലേക്ക് മടങ്ങാൻ കഴിയും അതിനാൽ ചിലതിൽ അരികുകൾ ഉള്ളത് മാത്രം പോരാ എനിക്ക് i മുതൽ j വരെ പോകാനും j ൽ നിന്ന് i ലേക്ക് മടങ്ങാനും കഴിയണം ഈ സാഹചര്യത്തിൽ ശക്തമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ശക്തമായി ബന്ധിപ്പിച്ച ഘടകങ്ങൾ എന്ന് വിളിക്കുന്നവയിൽ സംവിധാനം ചെയ്ത ഗ്രാഫ് എല്ലായ്പ്പോഴും വിഘടിപ്പിക്കാൻ കഴിയുമെന്ന് ഇത് മാറുന്നു ശക്തമായി ബന്ധിപ്പിച്ച ഗ്രാഫിന് ഒരു ഘടകമുണ്ട് ആ ഘടകത്തിലെ ഓരോ ജോഡി നോഡുകളും ഘടകത്തിലെ എല്ലാ നോഡുകളിൽ നിന്നും ശക്തമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഘടകത്തിലെ മറ്റെല്ലാ നോഡുകളിലേക്കും പോയി തിരികെ വരാം ഉദാഹരണത്തിന് ഇത് ഈ ഗ്രാഫിലേക്ക് നോക്കും തുടർന്ന് ശക്തമായി ബന്ധിപ്പിച്ച ഘടകങ്ങൾ ഒന്ന് 1 3 4 സൈക്കിൾ 1 2 3 മുതൽ 4 വരെ പോയി തിരികെ വരാം അതിനാൽ ഈ ചക്രത്തിൽ നിന്ന് നമുക്ക് മറ്റേതൊരു നോഡിലേക്കും മടങ്ങാം അതുപോലെ തന്നെ 2 5 6 ഫോമുകൾ ശക്തമായി ബന്ധിപ്പിച്ച ഘടകമാണ് അതിൽ 7 ശക്തമായി ബന്ധിപ്പിച്ച ഘടകം കാണിക്കുന്നു കാരണം ഞങ്ങൾക്ക് എവിടെയും പോകാൻ കഴിയില്ല കൂടാതെ 8 ഉം ശക്തമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഘടകമാണ് കാരണം ഞങ്ങൾ പുറത്തുപോകുന്നു പക്ഷേ ഈ ഗ്രാഫിക് ഘടനയിലൂടെ നമുക്ക് ഇതിലേക്ക് മടങ്ങിവരാനാവില്ല അതിനാൽ ശക്തമായി ബന്ധിപ്പിച്ച 4 ഘടകങ്ങളായി ഈ ഗ്രാഫ് മാറുന്നുവെങ്കിൽ പ്രീ പോസ്റ്റ് നമ്പറുകൾ ഉപയോഗിച്ച് ഡിഎഫ്എസ് നമ്പറിംഗ് ഉപയോഗിക്കാം ഘടകങ്ങളെ കണക്റ്റുചെയ്യാൻ വളരെ ഗംഭീരമായ അൽഗോരിതം നൽകുകയും ദാസ് ഗുപ്ത പ്രോപ്പർട്ടി പപാഡിമിട്രിയോ വസിരാനി എന്നിവരുടെ പുസ്തകം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് ആ പുസ്തകത്തിൽ കാണാനാകും അതിനാൽ നിങ്ങൾക്ക് കണക്കുകൂട്ടാൻ കഴിയുന്നതിന്റെ ചില വ്യക്തമായ ഉദാഹരണങ്ങൾ ഞങ്ങൾ കണ്ടു BFS DFS എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണക്കുകൂട്ടാൻ കഴിയുന്ന മറ്റ് നിരവധി പ്രോപ്പർട്ടികൾ ഉണ്ട് ഉദാഹരണത്തിന് ആർട്ടിക്ലേഷൻ പോയിൻറുകൾ എന്ന് വിളിക്കുന്ന ഇവയുണ്ട് നിങ്ങൾ ഗ്രാഫ് ആണെങ്കിൽ എനിക്ക് നിർണ്ണായകമായ ഒരു ശീർഷകം ഉള്ളിടത്ത് ഇത് കാണപ്പെടുന്നു ഘടകങ്ങൾ വിച്ഛേദിക്കുന്നതിന് ഈ ഗ്രാഫും ഈ ഗ്രാഫ് നീക്കംചെയ്യുകയാണെങ്കിൽ BFS ഉം അത്തരം വെർട്ടീസുകളും എനിക്ക് തിരിച്ചറിയാൻ കഴിയും DFS ഉം പ്രത്യേകിച്ചും DFS ഉപയോഗിക്കുന്നു അതുപോലെ എനിക്ക് ഇതുപോലുള്ള ഒരു എഡ്ജ് ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഈ എഡ്ജ് ഞാൻ നീക്കം ചെയ്താൽ ഗ്രാഫ് വിച്ഛേദിക്കപ്പെടും ഡിഎഫ്എസ് ഉപയോഗിച്ച് എനിക്ക് അത്തരമൊരു എഡ്ജ് വീണ്ടും തിരിച്ചറിയാൻ കഴിയും ഇപ്പോൾ ഇവ പ്രധാനമാണ് കാരണം ഇവ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ ശൃംഖലയെയോ ചില റൂട്ട് നെറ്റ്വർക്കിനെയോ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഇവയിൽ കുപ്പി കഴുത്തുകളാണെങ്കിൽ ഇവ നിർണായക പോയിന്റുകളാണ് ഇതൊരു കവലയാണെങ്കിൽ അപകടമുണ്ടാകാതെ ട്രാഫിക്കും കൂടാതെ ഇടതുവശത്ത് പല ഭാഗത്തുനിന്നും പോകുക വലതുവശത്ത് അല്ലെങ്കിൽ ഇത് ഒരു നെറ്റ്വർക്ക് വയർ ആണ് ഈ കേബിൾ മുറിച്ചുമാറ്റിയാൽ ഘടകങ്ങൾ കാരണം നെറ്റ്വർക്ക് കട്ട് വിച്ഛേദിക്കപ്പെടും അതിനാൽ ബിഎഫ്എസ് ഡിഎഫ്എസ് സമയത്തും ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ കണക്കാക്കാം അതിനാൽ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഇവിടെ ബിഎഫ്എസും ഡിഎഫ്എസും വെർട്ടെക്സിന് ടിയിലേക്ക് എത്താൻ കഴിയുമോയെന്നറിയാൻ കണക്റ്റുചെയ്യുന്നതിന് മാത്രമല്ല നിങ്ങൾക്ക് ഒരു നല്ല വിവരങ്ങൾ നേടാനാകും ഇവ ലീനിയർ ടൈം അൽഗോരിതം ആണ് ഇവയെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് BFS DFS സമയത്ത് അതിനാൽ വളരെ കാര്യക്ഷമമായി നിങ്ങൾക്ക് ഗ്രാഫിലെ വിവിധ സവിശേഷതകൾ കണക്കുകൂട്ടാനും ഇവ രണ്ടും ഉപയോഗപ്പെടുത്താനും കൂടുതൽ കാര്യക്ഷമമായ നടപടിക്രമങ്ങൾ രൂപകൽപ്പന ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യേണ്ട മറ്റ് കാര്യങ്ങൾ തിരിച്ചറിയാനോ കഴിയും